കഴിഞ്ഞ ക്ലാസിൽ ഫ്രാക്ചർ മെക്കാനിക്സിന് ഉത്തരം നൽകാൻ കഴിയുന്ന കുറച്ച് ചോദ്യങ്ങൾ നമ്മൾ ഉന്നയിച്ചിരുന്നു അത് ഇവയായിരുന്നു ഒരു വിള്ളലിന്റെ നിർണായക നീളം എന്താണ് തന്നിരിക്കുന്ന വിള്ളൽ ദൈർഘ്യത്തിന് റസിഡ്യൂവൽ സ്ട്രെങ്ത് എന്താണ് ഒരു വിള്ളൽ വളരാൻ എടുക്കുന്ന സമയം എന്താണ് NDT ഷെഡ്യൂൾ എങ്ങനെ തീരുമാനിക്കും ഈ നാല് ചോദ്യങ്ങൾക്കും ഒരു ടെൻഷൻ പരിശോധനയോ ഫാറ്റിഗ് പരിശോധനയോ മാത്രം നടത്തിക്കൊണ്ട് നമുക്ക് ഉത്തരം കണ്ടെത്താൻ കഴിയില്ല ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുന്നതിന് നമുക്ക് ഒരു അധിക പരിശോധന ആവശ്യമാണ് അവസാനത്തെ രണ്ട് ചോദ്യങ്ങൾ ഇവയായിരുന്നു വിള്ളൽ ശാഖയാകാൻ കാരണമെന്ത് ഊർജ്ജ പുറന്തള്ളുന്ന സംവിധാനങ്ങൾ എന്തൊക്കെയാണ് ഇവ രണ്ടും വളരെ അടിസ്ഥാനപരമായ സ്വഭാവമാണ് ഊർജ്ജ പ്രകാശന നിരക്കുമായി ബന്ധപ്പെട്ട ആശയങ്ങൾ നമ്മൾ വികസിപ്പിക്കുമ്പോൾ ഈ ചോദ്യങ്ങൾക്ക് എങ്ങനെ ഉത്തരം നൽകാമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഫ്രാക്ചർ മെക്കാനിക്സിനുള്ള പുതിയ പരിശോധന നമ്മൾ ഇപ്പോൾ നോക്കുന്നത്നിർണായകമായ വിള്ളൽ നീളം എന്താണ് വിള്ളൽ വളരാൻ എത്ര സമയമെടുക്കും ഇതൊക്കെ എനിക്ക് അറിയണമെങ്കിൽ ഫ്രാക്ചർ മെക്കാനിക്സിനായി എനിക്ക് ഒരു പുതിയ പരീക്ഷണം ആവശ്യമാണ് ഇതാണ് ചിത്രത്തിൽ കാണിക്കുന്നത് ഇവിടെ നമുക്ക് ഒരു മാതൃകയുണ്ട് അത് ഫാറ്റിഗ് ലോഡിംഗിന് വിധേയമാണ് ഇതിന്റെ ഭംഗിയുള്ള ഒരു രേഖാചിത്രം നിർമ്മിക്കാൻ ശ്രമിക്കുക ഫാറ്റിഗ് ലോഡിംഗ് കാരണം പ്രവർത്തനത്തിൽ വിള്ളൽ വളരുന്നതായി നിങ്ങൾ കണ്ടെത്തുകയും അനുയോജ്യമായ അന്വേഷണം വഴി വിള്ളലിന്റെ വളർച്ച നിരീക്ഷിക്കുകയും ചെയ്യുന്നു ഇതൊരു ചിത്രം മാത്രമാണ് വിള്ളലിന്റെ വളർച്ച നിരീക്ഷിക്കാൻ അവർക്ക് നിരവധി മാർഗ്ഗങ്ങളുണ്ട് ക്രാക്കുകളുടെ ദൈർഘ്യവും സൈക്കിളുകളുടെ എണ്ണവും തമ്മിലുള്ള ഡാറ്റ വേർതിരിച്ചെടുക്കുന്നു ഡെൽറ്റ P 1 ഡെൽറ്റ P 2 ഡെൽറ്റ P 3 എന്നിവ പ്രയോഗിച്ച ലോഡിന്റെ വിവിധ ആംപ്ലിറ്റ്യൂഡുകൾക്കായി നിങ്ങൾ ഇത് ചെയ്യുന്നു നിങ്ങൾ ലോഡിംഗിന്റെ വ്യാപ്തി മാറ്റുമ്പോൾ ഈ ഗ്രാഫുകളും വ്യത്യാസപ്പെടും നിങ്ങൾ പ്രാരംഭ വിള്ളലിൽ ആരംഭിക്കുന്നു ഇവയെ ക്രാക്ക് ഗ്രോത്ത് കർവുകൾ എന്ന് വിളിക്കുന്നു അതിനാൽ വിള്ളൽ വളർച്ചയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് എനിക്ക് ഉത്തരം നൽകണമെങ്കിൽ ഞാൻ ഡാറ്റ ശേഖരിക്കേണ്ടതുണ്ട് എനിക്ക് ഒരു പരീക്ഷണം നടത്തേണ്ടതുണ്ട് പരീക്ഷണങ്ങൾ വിലയേറിയതാണ് അതിനാൽ എനിക്ക് ഒരു ഫ്രാക്ചർ മെക്കാനിക്സ് രീതി സ്വീകരിക്കേണ്ടിവന്നാൽ മുഴുവൻ പ്രോഗ്രാമും ചെലവേറിയതായിത്തീരും നിങ്ങൾ കൂടുതൽ പരിശോധനകൾ നടത്തിയില്ലെങ്കിൽ നമ്മൾ ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ നിങ്ങൾക്ക് കഴിയില്ല നിങ്ങൾ ഫാറ്റിഗ് പരിശോധന നോക്കുകയാണെങ്കിൽ മാതൃക എത്ര സൈക്കിളുകളിൽ പരാജയപ്പെട്ടുവെന്ന് രേഖപ്പെടുത്തുന്നതിനാണ് പരിശോധന നടത്തിയത് ഇത് വിള്ളൽ വളർച്ചയെ ശരിക്കും നിരീക്ഷിച്ചിട്ടില്ല മറ്റൊരു പ്രധാന കാര്യം ഒരു മെറ്റീരിയലിന് എനിക്ക് അത്തരം ഒരുപാട് ഗ്രാഫുകളുടെ എണ്ണം ഉണ്ടെങ്കിൽ ഒരു ഡിസൈൻ കാഴ്ചപ്പാടിൽ ഇത് സൌകര്യപ്രദമല്ല ശേഖരിച്ച വിവരങ്ങളെല്ലാം വിശകലനം ചെയ്യുകയും കുറയ്ക്കുകയും ചെയ്യാൻ പാരീസിനു കഴിഞ്ഞു അതിനായി ലഭിച്ച ഡേറ്റ x അക്ഷത്തിൽ ലോഗ് ഡെൽറ്റ K ഉം y അക്ഷത്തിൽ ലോഗ് da ബൈ dN ഉപയോഗിച്ചുകൊണ്ട് മറ്റൊരു ഗ്രാഫ് പ്ലോട്ട് ചെയ്തു നമുക്ക് ഒരു നേർരേഖ ലഭിക്കുന്നു ഇത് പ്രശസ്ത പാരീസ് നിയമം എന്നറിയപ്പെടുന്നു കോഴ്സിന്റെ പിന്നീടുള്ള ഭാഗത്ത് നമ്മൾ വിശദമായി കാണും നമുക്ക് ഇവിടെ എന്താണുള്ളത് ഡെൽറ്റ K സ്ട്രെസ് ഇൻടെൻസിറ്റി ഘടകത്തിലെ മാറ്റമാണ് C m എന്നിവ മെറ്റീരിയൽ കോൺസ്റ്റൻസ് ആണ് അതിനാൽ നിങ്ങൾ ഇത്തരത്തിലുള്ള ഒരു പരിശോധന നടത്തണം പരിശോധനയുടെ അടിസ്ഥാനത്തിൽ C m എന്നിവ കണ്ടെത്തുക നമുക്ക് ശരിക്കും C m ഉണ്ടെങ്കിൽ വിള്ളൽ എങ്ങനെ വളരുമെന്ന് നമുക്ക് കണ്ടെത്താനാകും അതിനാൽ ഫ്രാക്ചർ മെക്കാനിക്സിന്റെ വിജയമാണിത് വിള്ളൽ എങ്ങനെ വളരുമെന്നും അത് എപ്പോൾ നിർണായകമാകുമെന്നും നമുക്ക് പ്രവചിക്കാൻ കഴിയും നിങ്ങൾ ഒരു അധിക പരിശോധന നടത്തുമ്പോൾ മാത്രമേ അത് സാധ്യമാകൂ വിള്ളൽ വളർച്ച കർവുകൾ ഇപ്പോൾ എനിക്ക് ഫ്രാക്ചർ മെക്കാനിക്സ് ഉണ്ട് എന്ന് നിങ്ങൾ വിചാരിച്ചേക്കാം വിള്ളൽ വളർച്ച എങ്ങനെ നിരീക്ഷിക്കാമെന്ന് എനിക്കറിയാം അതിൽ നിങ്ങൾ വിശ്രമിക്കരുത് ക്രാക്ക് ആരംഭിക്കുന്നതിന് മുമ്പുള്ള ആയുസ്സ് എന്താണെന്നും വിള്ളൽ വളരുമ്പോൾ ആയുസ്സ് എന്താണെന്നും നിങ്ങൾ കണ്ടെത്തണം ഇതുപോലുള്ള സൂക്ഷ്മമായ വശം നിങ്ങൾ ശരിക്കും നോക്കുകയാണെങ്കിൽ ക്രാക്ക് ഇനീഷ്യേഷൻ കാലയളവ് സാധാരണയായി ക്രാക്ക് പ്രചാരണ കാലഘട്ടത്തേക്കാൾ വളരെ കൂടുതലാണ് നിങ്ങളുടെ SN ഡയഗ്രം വ്യത്യസ്ത അക്ഷത്തിൽ വീണ്ടും പ്ലോട്ട് ചെയ്തിരിക്കുന്നു എനിക്ക് ഇവിടെ ഫാറ്റിഗ് ലൈഫ് ഉണ്ട് ഇവിടെ ഞാൻ നേരിട്ട് ആൾട്ടർനേറ്റിംഗ് സ്ട്രസ്സ് ചെലുത്തുന്നു അതുകൊണ്ടാണ് ഇത് ഒരു നേർരേഖയേക്കാൾ നോൺ ലീനിയർ കർവ് ആയുള്ളത് ഇത് എന്താണ് നൽകുന്നത് സ്ട്രെസ്ന്റെ ഒരു ഇതര മൂല്യത്തിന് വിള്ളൽ ആരംഭിക്കുന്ന കാലയളവ് ക്രാക്ക് പ്രചാരണ കാലയളവിനേക്കാൾ വളരെ കൂടുതലാണ് അതിനാൽ ക്രാക്ക് ഇനീഷ്യേഷൻ ഘട്ടം വൈകിയാൽ നിങ്ങൾക്ക് നേട്ടമാണ് മെറ്റലർജിസ്റ്റുകൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഇതാണ് അവർ രീതിശാസ്ത്രങ്ങൾ കണ്ടെത്തുന്നു വിള്ളൽ ആരംഭിക്കുന്നത് എങ്ങനെ വൈകിപ്പിക്കും വാസ്തവത്തിൽ നമുക്ക് ക്രാക്ക് ടിപ്പ് മൂർച്ചയുണ്ടെങ്കിൽ അത് വിള്ളൽ വളർച്ചയെ വൈകിപ്പിക്കും പൊതുവേ പ്ലാസ്റ്റിറ്റി മോശമാണെന്ന് നിങ്ങൾ പറഞ്ഞേക്കാം ഫ്രാക്ചർ കാഴ്ചപ്പാടിൽ പ്രാദേശിക പ്ലാസ്റ്റിക് രൂപഭേദം പ്രയോജനകരമാണ് പ്രാദേശിക പ്ലാസ്റ്റിക് രൂപഭേദം വിള്ളൽ മൂർച്ചയുള്ളതാക്കും ഈ പ്രശ്നങ്ങളെല്ലാം നമ്മൾ പിന്നീട് ഏറ്റെടുക്കും പക്ഷേ നമ്മുടെ മനസ്സിൽ ഒരു ചിത്രം ഉണ്ടായിരിക്കണം വിള്ളൽ വളർച്ച പ്രവചിക്കാൻ നമുക്ക് ഒരു മാതൃക ഉണ്ടെങ്കിലും ഇത് ദ്വിതീയമാണ് റസിഡ്യൂവൽ സ്ട്രെങ്ത് ഡയഗ്രം നമുക്ക് ക്രാക്ക് ഇനീഷ്യേഷൻ പ്രശ്നം പരിഹരിക്കാൻ കഴിയുമെങ്കിൽ വളരെ നല്ലതാണ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇത് ഓപ്പറേറ്റിംഗ് ആൾട്ടർനേറ്റിംഗ് സ്ട്രെസിന്റെ ഒരു ഫംഗ്ഷൻ ആണ് ക്രാക്ക് ഇനീഷ്യേഷൻ കാലയളവും ക്രാക്ക് പ്രചാരണ കാലയളവും പകുതി പകുതി വരെയാകാം ഇത് അപ്ലിക്കേഷനെ ആശ്രയിച്ചിരിക്കുന്നു അതിനാൽ നിങ്ങൾ ക്രാക്ക് ഇനീഷ്യേഷനും ക്രാക്ക് പ്രചാരണത്തിനും വേണ്ടി പ്രവർത്തിക്കണം ക്രാക്ക് പ്രചാരണത്തിൽ മാത്രം പ്രവർത്തിക്കുന്നത് നിങ്ങളുടെ ഡിസൈൻ സാഹചര്യത്തിന് നിങ്ങളെ സഹായിക്കില്ല ഒരു നിശ്ചിത വിള്ളലിന് റസിഡ്യൂവൽ സ്ട്രെങ്ത് എന്താണെന്ന് നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട് ഇത് വീണ്ടും ചിത്രത്തിൽ കാണിക്കുന്നു നമുക്ക് x ആക്സിസ് ഇൽ ക്രാക്ക് വലുപ്പം പ്ലോട്ട് ചെയ്തിട്ടുണ്ട്

നമുക്ക് ക്രാക്ക് ഇല്ലെങ്കിൽ അല്ലെങ്കിൽ ക്രാക്ക് നീളം പൂജ്യം ആകുമ്പോൾ നമുക്ക് പരമ്പരാഗത ഡിസൈൻ ശക്തിയുണ്ട് അതിനാൽ നമുക്ക് ഒരു വിള്ളൽ ഉണ്ടാകുമ്പോൾ നമുക്ക് ആ ശക്തിയോടെ പ്രവർത്തിക്കാൻ കഴിയില്ല വാസ്തവത്തിൽ നിങ്ങൾ പഴയ പാലങ്ങളിൽ ചിലത് നോക്കുകയാണെങ്കിൽ അവർ അത് ഉപേക്ഷിക്കുമായിരുന്നു ഇരുചക്രവാഹനങ്ങൾ മാത്രം അനുവദനീയമാണെന്ന് അവർ പറയും ഹെവി ട്രക്കിനെ ആ പാലത്തിൽ പോകാൻ അവർ അനുവദിക്കില്ല ഘടനയെടുക്കുന്ന ലോഡ് നിങ്ങൾ കുറച്ചിട്ടുണ്ട് എന്നാണ് ഇതിനർത്ഥം എനിക്ക് ഒരു ശാസ്ത്രീയ രീതി ആവശ്യമാണ് ഫ്രാക്ചർ മെക്കാനിക്സിൽ നിന്ന് ലഭിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രധാന ഫലമാണിത് റസിഡ്യൂവൽ സ്ട്രെങ്ത് രേഖാചിത്രങ്ങൾ എന്നറിയപ്പെടുന്നവ നേടേണ്ടതുണ്ട് വ്യത്യസ്ത ക്രാക്ക് ദൈർഘ്യങ്ങൾക്കായി പ്രവർത്തന ലോഡ് എങ്ങനെ പരിമിതപ്പെടുത്തണമെന്ന് ഇത് കാണിക്കുന്നു നിങ്ങൾ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് ഇൽ ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ വിപുലീകരണം ആയ ഒരു ആശയം നിങ്ങൾക്കുണ്ട് ക്രിട്ടിക്കൽ ക്രാക്ക് ലെങ്ത് എന്റെ പക്കലുണ്ടെങ്കിലും അതിൽ പ്രവർത്തിക്കാനോ ക്രിട്ടിക്കൽ ക്രാക്ക് ദൈർഘ്യത്തിലേക്ക് പോകാനോ നമ്മൾ ആഗ്രഹിക്കുന്നില്ല അനുവദനീയമായ ക്രാക്ക് ദൈർഘ്യം എന്നറിയപ്പെടുന്നവ നിർവചിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു ഇത് നമ്മുടെ സേഫ്റ്റി ഫാക്ടർ എന്നതിന് സമാനമായ ഒരു ഘടകത്താൽ നിർണ്ണയിക്കപ്പെടുന്നു നിങ്ങൾ ഇതിനെ N c എന്ന് വിളിക്കുന്നു അതിനെ ക്രാക്ക് ലെങ്ത് സേഫ്റ്റി ഫാക്ടർ എന്നും വിളിക്കുന്നു ഇത് ഉപയോഗിച്ച് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് നമുക്ക് പോകാൻ കഴിയുന്ന പരമാവധി സ്ട്രെസ് എന്താണെന്നും അതിനനുസൃതമായി അനുവദനീയമായ വിള്ളൽ ദൈർഘ്യം എന്താണെന്നും നിങ്ങൾ കണ്ടെത്തണം നിങ്ങളുടെ പരമ്പരാഗത ഡിസൈൻ രീതിശാസ്ത്രത്തിൽ നിന്ന് ആശയങ്ങൾ കടമെടുക്കുന്നു നമുക്ക് ഫാക്ടർ ഓഫ് സേഫ്റ്റി ഉണ്ട് കണക്കാക്കിയ പരാജയ സ്ട്രെസ്ൽ നിങ്ങൾ പ്രവർത്തിക്കില്ല ഫാക്ടർ ഓഫ് സേഫ്റ്റി കൊണ്ടുവന്ന് നിങ്ങൾ അതിനേക്കാൾ വളരെ താഴെയാണ് പ്രവർത്തിക്കുന്നത് അതുപോലെ ഫ്രാക്ചർ മെക്കാനിക്സ് കണക്കുകൂട്ടൽ വഴി നിർണ്ണായക വിള്ളൽ നീളം എന്താണെന്ന് നിങ്ങൾ കണ്ടെത്തുന്നു കൂടാതെ അനിശ്ചിതത്വങ്ങൾ ശ്രദ്ധിക്കുന്നതിനായി ആ വിള്ളൽ നീളം പ്രവർത്തിപ്പിക്കരുത് എന്നാൽ അതിനു താഴെയുള്ള ഒരു വിള്ളൽ നീളത്തിൽ പ്രവർത്തിക്കുക അത് നിങ്ങളുടെ വിശകലനത്തിൽ ഏത് തരത്തിലുള്ള ആത്മവിശ്വാസ നിലയാണുള്ളത് എന്നതിനെ ആശ്രയിച്ചിരിക്കും നമ്മൾ അറിയാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു ചോദ്യം വിള്ളൽ പരിശോധിക്കുന്നതിനുള്ള സമയം എന്താണ് നമുക്ക് അത് പരിശോധിക്കാം വിള്ളൽ വളർച്ച കാണാൻ നമ്മൾ ആഗ്രഹിക്കുന്നു നമുക്ക് ക്രാക്ക് വലുപ്പവും സമയവും ഉണ്ട് നിങ്ങളുടെ നോൺഡസ്ട്രക്റ്റീവ് ടെസ്റ്റിംഗ് മെത്തഡോളജി ഉപയോഗിച്ച് കണ്ടെത്താൻ കഴിയുന്ന ഒരു മിനിമം ക്രാക്ക് ഉണ്ടാകും എന്ന ഒരു ആശയത്തിൽ നമ്മൾ ആരംഭിക്കുന്നു അനുവദനീയമായ വിള്ളൽ നീളം എന്ന് വിളിക്കുന്ന ഒന്ന് ഉണ്ടെന്ന് നമ്മൾ ഇതിനകം ശ്രദ്ധിച്ചു നമുക്ക് ക്രാക്ക് ഗ്രോത്ത് കർവ് ഉണ്ട് വിള്ളൽ വളർച്ചാ കർവ്ൽ നിന്ന് എപ്പോൾ വിള്ളൽ a p നീളത്തിൽ വളരുന്നു എന്ന് നമുക്ക് കണ്ടെത്താനാകും പരിശോധനയ്ക്ക് ലഭ്യമായ സമയം എന്താണ് എന്ന് അത് നിങ്ങൾക്ക് നൽകും ഈ അടിസ്ഥാനത്തിൽ മാത്രം നമുക്ക് NDT ഷെഡ്യൂൾ തീരുമാനിക്കാൻ കഴിയും വാസ്തവത്തിൽ പരമ്പരാഗത രൂപകല്പനയിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾ റെയിൽവേ സ്റ്റേഷനുകൾ നോക്കുമ്പോൾ ട്രെയിൻ നിർത്തുമ്പോൾ അതിനടിയിൽ ആരെങ്കിലും ഇരിക്കുകയും ഉചിതമായ സ്ഥലങ്ങളിൽ ബോഗികളുടെ അടിയിൽ ഇടിക്കുകയും ചെയ്യും ഘടനാപരമായ എന്തെങ്കിലും തകരാറുണ്ടോയെന്ന് അറിയാൻ അദ്ദേഹം യഥാർത്ഥത്തിൽ ഒരു വൈബ്രേഷൻ പരിശോധന നടത്തുകയാണ് വിമാനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവ ലാൻഡുചെയ്യുമ്പോൾ ഓരോ തവണ ഇറങ്ങുമ്പോഴും അവ ചില കുറഞ്ഞ പരിശോധന നടത്തുന്നു എയർക്രാഫ്റ്റുകൾ അതിന്റെ പ്രവർത്തന കാലഘട്ടത്തിൽ സമഗ്രമായ ഘടനാപരമായ നിരീക്ഷണത്തിലൂടെ കടന്നുപോകുന്നു

അതിനാൽ ഓരോ പരിശോധനയും എത്ര തവണ ചെയ്യണം എന്ത് കാണണം എന്ന് നിങ്ങൾ അറിയേണ്ടതുണ്ട് നമുക്ക് പ്രാഥമിക പരിശോധന ഉണ്ടായിരിക്കാം ഇതിനിടയിൽ നമുക്ക് ദീർഘമേറിയ പരിശോധന ഉണ്ടായിരിക്കാം ഈ പ്രശ്നങ്ങൾ കണ്ടെത്തുന്നതിനായി വിവരങ്ങൾ ശേഖരിക്കുന്നതിന് നിങ്ങൾ എങ്ങനെ പോകും ഇതുപോലുള്ള ഒരു ഗ്രാഫിൽ നിന്ന് നമുക്ക് അത് ലഭിക്കും ഫ്രാക്ചർ മെക്കാനിക്സ് സമഗ്രമാണെന്ന പ്രധാന വശം അവതരിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ ശാരീരികക്ഷമത ബോധവത്കരണ സർക്കിളുകളിലെ ഒരു രഹസ്യവാക്ക് ഇപ്പോൾ സമഗ്ര ആരോഗ്യം ആണെന്ന് നിങ്ങൾക്കറിയാം ആളുകൾ ആരോഗ്യവാനായിരിക്കാൻ ആഗ്രഹിക്കുന്നു ചെറു കാര്യത്തിന് പോലും നിങ്ങൾ പോയി ഒരു മരുന്ന് കഴിക്കുന്നു ആളുകൾ ആരോഗ്യത്തോടെ തുടരാൻ ആഗ്രഹിക്കുന്നു ധാരാളം ബദൽ മരുന്നുകൾ കേന്ദ്രീകരിച്ചിരിക്കുന്നു ഫ്രാക്ചർ മെക്കാനിക്സിനും ഹോമിയോപ്പതിക്കും ഇടയിൽ ഒരുതരം സാമ്യത നിലനിൽക്കുന്നു നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഹോമിയോപ്പതി രോഗലക്ഷണങ്ങളെ ചികിത്സിക്കുന്നില്ല പക്ഷേ രോഗലക്ഷണങ്ങളിലൂടെ ഒരു രോഗത്തിന്റെ മൂലകാരണത്തെ അഭിസംബോധന ചെയ്യുന്നു നിങ്ങൾ അലോപ്പതിയിലേക്ക് പോയാൽ നിങ്ങൾ ഛർദ്ദിക്കുകയാണെങ്കിൽ അവർ നമുക്ക് ഡോർസ്റ്റൽ നൽകുകയും ഛർദ്ദി എന്ന വികാരത്തെ പിടിച്ചു നിർത്തുകയും ചെയ്യും ആ രീതിയിലാണ് അവർ നോക്കുന്നത് ഛർദ്ദിക്ക് കാരണമാകുന്നതെന്താണെന്ന് അവർ നോക്കുന്നില്ല കാരണം നിങ്ങളുടെ സിസ്റ്റത്തിൽ നിന്ന് ചില കാര്യങ്ങൾ പുറത്തുകളയാൻ ശരീരം ആഗ്രഹിക്കുന്നു ഇത് ആരോഗ്യകരമാണോ അല്ലയോ എന്ന് നിങ്ങൾ വിലയിരുത്തണം വാസ്തവത്തിൽ ആരെങ്കിലും വിഷം കഴിച്ചാൽ പ്രഥമശുശ്രൂഷയിൽ ഒന്ന് നിങ്ങൾ അവനെ ഛർദ്ദിപ്പിക്കണം ഉള്ളിലേക്ക് പോയ വിഷം എന്തായാലും അത് എത്രയും വേഗം പുറത്താക്കണം ചില സന്ദർഭങ്ങളിൽ ഛർദ്ദിയെ ഉത്തേജിപ്പിക്കുന്ന മരുന്നുകളുണ്ട് ആ മരുന്ന് കഴിക്കുന്നതിന് അവർ ഛർദ്ദി എന്ന വികാരത്തെ പിടിച്ചു നിർത്തുന്നു അലോപ്പതിയിൽ അവർ ഇത് ഇങ്ങനെ കൈകാര്യം ചെയ്യുന്നു മാത്രമല്ല നമുക്ക് ഒരു രോഗലക്ഷണം ഉണ്ടാകുമ്പോൾ അത് വ്യക്തി A വ്യക്തി B അല്ലെങ്കിൽ വ്യക്തി C ആരിൽ ആണെങ്കിലും മരുന്നിന്റെ ശക്തിയിൽ മാറ്റം വരാം പക്ഷേ മരുന്ന് ഒന്ന് തന്നെ ആയിരിക്കും അതായത് അവ ലക്ഷണങ്ങളിൽ പ്രവർത്തിക്കുന്നു മൂലകാരണം കണ്ടെത്തുന്നതിനേക്കാൾ ഇത് കൂടുതൽ ലക്ഷണങ്ങൾ അവലംബിച്ച് ഉള്ളതാണ് അക്കാലത്ത് ഉണ്ടായിരുന്ന തരത്തിലുള്ള ഡിസൈൻ രീതികൾ ഉപയോഗിച്ചാണ് ലിബർട്ടി കപ്പലുകൾ നിർമ്മിച്ചത് ഇത് രൂപകൽപ്പന ചെയ്യുകയും പരീക്ഷിക്കുകയും പിന്നീട് പ്രവർത്തനത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു പക്ഷേ അത് ഗ്ലാസ് പോലെ തകർന്നു എന്താണ് അവഗണിച്ചത് അന്തർലീനമായ കുറവുകളുടെ സാന്നിധ്യം അവർ അവഗണിച്ചു അത് നോക്കേണ്ടതുണ്ട് ഫ്രാക്ചർ മെക്കാനിക്സിൽ നമ്മൾ അത് ചെയ്യുന്നു ഏത് ഘടനയ്ക്കും ആന്തരിക ന്യൂനതകൾ ഉണ്ടാകാമെന്നതും രൂപകൽപ്പനയിൽ അവ കണക്കാക്കാൻ ശ്രമിച്ചും ആണ് ഇത് ആരംഭിക്കുന്നത് രൂപകൽപ്പന ഘട്ടത്തിൽ നിങ്ങൾ ഇത് കണക്കാക്കുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വീകരിക്കുന്ന സൌന്ദര്യവർദ്ധക നടപടികൾ എന്തുതന്നെയായാലും ഒരു ശാശ്വത പരിഹാരം നൽകില്ല നമുക്ക് സർപ്രൈസുകൾ ഉണ്ടാകും നിങ്ങൾ ഒരു പ്രശ്നം പരിഹരിച്ചിരിക്കാം പക്ഷേ അത് മറ്റെന്തെങ്കിലും പ്രശ്നത്തിലേക്ക് നയിച്ചേക്കാം അതിനാൽ മൂലകാരണം എന്താണെന്ന് നിങ്ങൾ പരിശോധിക്കുകയും മൂലകാരണം പരിഹരിക്കാൻ ശ്രമിക്കുകയും വേണം മറ്റ് പ്രധാന വശം എന്താണ് നിങ്ങൾ ഒരു ഹോമിയോ ഡോക്ടറെ നോക്കുകയാണെങ്കിൽ സമാനമായ ലക്ഷണങ്ങൾക്കായി അവർ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഉയരമുള്ള വ്യക്തിക്കും ഹ്രസ്വ വ്യക്തിക്കും വ്യത്യസ്ത മരുന്നുകൾ നൽകും വളരെയധികം സൂക്ഷ്മമായ വർഗ്ഗീകരണങ്ങളുണ്ട് മരുന്ന് വ്യക്തിഗതമാണ് ഫ്രാക്ചർ മെക്കാനിക്സിലും ഇതിന് സമാനമായ ഒന്ന് സംഭവിക്കുന്നു കട്ടിയുള്ള മാതൃകകൾക്കും നേർത്ത മാതൃകകൾക്കും നമുക്ക് പ്രത്യേകം ശുപാർശയുണ്ട് അതിനാൽ നമുക്ക് പ്ലെയിൻ സ്ട്രെസ് ഉള്ള നേർത്ത ഘടനയുണ്ട് നമുക്ക് മറ്റൊരു ശുപാർശയുണ്ട് പ്ലെയിൻ സ്ട്രെയിൻ ഉള്ള ഘടനകൾക്ക് നമുക്ക് മറ്റൊരു ശുപാർശയുണ്ട് എനിക്ക് കടലിനടിയിൽ ഒരു അണ്ടർവാട്ടർ പൈപ്പ്ലൈൻ വേണമെന്ന് കരുതുക ഫ്രാക്ചർ മെക്കാനിക്സിൽ നിങ്ങൾ ഒരു കോഴ്സ് ചെയ്തിട്ടില്ല നിങ്ങൾക്ക് പരമ്പരാഗത രൂപകൽപ്പനയിൽ ആണ് പരിശീലനം ലഭിച്ചത് നിങ്ങളുടെ ഡിസൈൻ ടീമിന്റെ ഒരു ചർച്ചയിൽ ഡിസൈൻ ടീം അംഗം നിർദ്ദേശിക്കുന്നു പൈപ്പിന്റെ ചുവർ കനം സാധ്യമാകുന്നിടത്തോളം നമ്മൾ വർദ്ധിപ്പിക്കണം അത്തരമൊരു രൂപകൽപ്പനയ്ക്കായി നമ്മൾ പോകണം ഡിസൈൻ ടീം അത് സ്വീകരിക്കും കാരണം ഇത് വളരെ നിർണായകമായ സ്ഥലമാണ് മാത്രമല്ല കേടുപാടുകൾ തീർക്കാൻ പോലും നമുക്ക് ബുദ്ധിമുട്ടാണ് അത് ശക്തവും ഭാരമുള്ളതുമായിരിക്കണം നമുക്ക് വളരെ കട്ടിയുള്ള ഒന്ന് ഉണ്ടെങ്കിൽ അത് ഒരു പ്ലെയിൻ സ്ട്രെയിൻ സാഹചര്യം പോലെ പ്രവർത്തിക്കും ഫ്രാക്ചർ മെക്കാനിക്സിൽ നിങ്ങൾ ഒരു കോഴ്സ് നടത്തിയിട്ടുണ്ടെങ്കിൽ ഒരു ഫ്രാക്ചർ മെക്കാനിക്സ് വ്യക്തി വന്ന് പറയും വളരെ കട്ടിയുള്ള പൈപ്പിനായി നിങ്ങൾ പോകരുത് ന്യായമായ കട്ടിയിലേക്ക് പോകുക അതുവഴി നിങ്ങൾ ഒരു പ്ലെയിൻ സ്ട്രെയിൻ അവസ്ഥയേക്കാൾ ഒരു പ്ലെയിൻ സ്ട്രെസ് അവസ്ഥയെ ഉത്തേജിപ്പിക്കുന്നു പ്ലെയിൻ സ്ട്രെസ് അവസ്ഥയിൽ ഫ്രാക്ചർ ടഫ്നെസ് പ്ലെയിൻ സ്ട്രെയിനേക്കാൾ വളരെ കൂടുതലാണ് എന്ന് നമ്മൾ കാണുന്നു സാമാന്യബുദ്ധി പരാജയപ്പെടുമ്പോൾ ശാസ്ത്രം നിങ്ങളുടെ രക്ഷയ്ക്കെത്തേണ്ടതുണ്ട് ഫ്രാക്ചർ മെക്കാനിക്സിൽ കട്ടിയുള്ള മാതൃകകൾക്കും നേർത്ത മാതൃകകൾക്കും ശുപാർശകൾ വ്യത്യസ്തമാണ് ഇത് മാത്രമല്ല നമുക്ക് നിരവധി നിർമ്മാണ പ്രക്രിയകളുണ്ട് നിങ്ങൾ ഒരു എക്സ്ട്രൂഷൻ ചെയ്യുന്നുവെന്ന് കരുതുക ഇ പ്രക്രിയ കാരണം ഒരു അനീസോട്രോപി ഉണ്ടാക്കുന്നു ഫ്രാക്ചർ പരിശോധനയിലും രൂപകൽപ്പനയിലും ഇത് കണക്കാക്കപ്പെടുന്നു ഇത് നിങ്ങളുടെ പരമ്പരാഗത രൂപകൽപ്പനയിൽ സാധാരണയായി കാണില്ല ഒരു പരിധി വരെ നിങ്ങൾ ഒരു ബൾക്ക് മെറ്റീരിയലിൽ നിന്ന് വയറുകളിലേക്ക് പോയാൽ ശക്തി വളരെ ഉയർന്നതാണെന്ന് അവർ മനസ്സിലാക്കുന്നു കാരണം നിങ്ങൾ അങ്ങനെയാണ് സ്പ്രിംഗ് ഡിസൈൻ ചെയ്യുന്നത് നിങ്ങൾ ഡിസൈൻ കോഡുകൾ ശരിക്കും നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരു വയർ പോലെ സമാനമായ മെറ്റീരിയൽ ഉപയോഗിക്കുമ്പോൾ പരാജയത്തിന്റെ ശക്തി വളരെ കൂടുതലായിരിക്കും അത് സ്പ്രിംഗ് രൂപകൽപ്പനയിൽ കണക്കാക്കപ്പെടുന്നു ഫ്രാക്ചർ പാരാമീറ്ററുകളുടെ സംഗ്രഹം സാധാരണ പരമ്പരാഗത സമീപനങ്ങൾ അവ പ്രോസസ് ഇൻഡ്യൂസ്ഡ് അനീസോട്രോപി ടെസ്റ്റിംഗിലേക്ക് കൊണ്ടുവരുന്നില്ല ഫ്രാക്ചർ മെക്കാനിക്സിന്റെ കാര്യത്തിൽ ഫ്രാക്ചർ ടഫ്നെസ് ടെസ്റ്റിംഗിനെക്കുറിച്ച് ഒരു അധ്യായം എടുക്കുമ്പോൾ നമ്മുടെ ഡിസൈൻ കണക്കുകൂട്ടലുകളിൽ പ്രോസസ് ഇൻഡ്യൂസ്ഡ് അനീസോട്രോപി കണക്കാക്കുന്നതിന് നമ്മൾ മാതൃക ശരിയായി എടുക്കും നിങ്ങൾ ഫ്രാക്ചർ മെക്കാനിക്സ് നോക്കുമ്പോൾ ഇത് മറ്റൊരു പ്രത്യേകതയാണ് ഫ്രാക്ചർ മെക്കാനിക്സിൽ നമുക്ക് നിരവധി പാരാമീറ്ററുകൾ ഉണ്ട് കൂടാതെ ആദ്യകാല പാരാമീറ്ററുകളിൽ ഒന്ന് എനർജി റിലീസ് റേറ്റ് ആയിരുന്നു ഇതിൻറെ യൂണിറ്റുകളും നിങ്ങൾ നോക്കണം ഗ്രിഫിത്തിനോടുള്ള ബഹുമാനാർത്ഥം G ചിഹ്നം ഉപയോഗിച്ച് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നു ഇതിനെ എനർജി റിലീസ് റേറ്റ് അല്ലെങ്കിൽ ക്രാക്ക് ഡ്രൈവിംഗ് ഫോഴ്സ് എന്ന് വിളിക്കുന്നു ഊർജ്ജ സമീപനത്തെ അടിസ്ഥാനമാക്കിയാണ് ഇത് വികസിപ്പിച്ചിരിക്കുന്നത് എനർജി റിലീസ് റേറ്റ് വളരെ പ്രധാനപ്പെട്ട ഒരു ആശയമാണ് എലിപ്റ്റിക്കൽ ദ്വാരത്തിന്റെ ഇംഗ്ലിസ് പരിഹാരത്തിന്റെ ഫലം മനസിലാക്കാൻ ആളുകൾ പാടുപെടുകയായിരുന്നു കാരണം ഇത് പറയുന്നത് വിള്ളൽ ഉണ്ടാകുമ്പോൾ സ്ട്രെസ് വളരെ വലുതായിത്തീരുന്നു നമുക്ക് അനലിറ്റിക്കായി ലഭിക്കുന്നത് അനന്തമാണ് എന്നാൽ ഇത് യഥാർത്ഥത്തിൽ അനന്തമായി മാറില്ല ക്രാക്ക് ടിപ്പിന് സമീപമുള്ള മെറ്റീരിയൽ പ്ലാസ്റ്റിക് രൂപഭേദം സംഭവിക്കും ഗ്രിഫിത്തിന്റെ സമീപനവും ചാതുര്യവുമാണ് യഥാർത്ഥത്തിൽ നമ്മൾ കാണുന്നതിനെ വിശദീകരിക്കുന്ന ഒരു പരിഹാരം നൽകിയത് കാരണം നമുക്ക് ഒരു വിള്ളൽ ഉണ്ടെങ്കിൽ വിള്ളൽ സ്വയം വളരുകയില്ല പക്ഷേ വിള്ളൽ വളരാൻ നമുക്ക് ഒരു ശക്തി ആവശ്യമാണ് മെറ്റീരിയലുമായി ബന്ധപ്പെട്ട അന്തർലീനമായ പ്രതിരോധമുണ്ട് വിള്ളൽ ഗുരുതരമാവുന്നു തുടർന്ന് ഫ്രാക്ചർ സംഭവിക്കുന്നു നമ്മൾ കുറച്ച് ഉദാഹരണങ്ങൾ കാണും അവിടെ ഒരു വിള്ളൽ വളർച്ചയെ തുടർന്ന് ഫ്രാക്ചർ ഉണ്ടാകും ആശയപരമായി ഇത് വളരെ പ്രധാനമാണ് ഈ കോഴ്സിൽ ഫ്രാക്ചർ മെക്കാനിക്സിന്റെ പിന്നിലുള്ള ആശയങ്ങളിൽ ഞാൻ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു പ്രാരംഭ ഘട്ടങ്ങളിൽ ഇത് വിവരണാത്മകമായി തോന്നാം അതും ആവശ്യമാണ് പിന്നീട് നമ്മൾ ഗണിതശാസ്ത്രം ഏറ്റെടുക്കും ഈ കോഴ്സിൽ ഗണിതശാസ്ത്രം വളരെ സങ്കീർണ്ണമാണ് നമ്മൾ ഗണിതശാസ്ത്രവും കാണും പക്ഷേ ചില ആശയപരമായ വികാസത്തെയും നമ്മൾ മനസ്സിലാക്കണം ഫ്രാക്ചർ മെക്കാനിക്സ് സമൂഹത്തിന് ഉപയോഗപ്രദമാക്കി ആളുകൾക്ക് ഉപയോഗപ്രദമായ പാരാമീറ്റർ കണ്ടെത്താൻ കഴിയുമെന്ന് ആളുകൾ മനസ്സിലാക്കി ഇർവിൻ ആരംഭിച്ച K എന്ന പാരാമീറ്റർ തയ്യാറാക്കി ഇത് സ്ട്രെസ് ഇന്റൻസിറ്റി ഫാക്ടർ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു അദ്ദേഹത്തിന്റെ കൂട്ടാളികളിൽ ഒരാളായ കെയ്സിനോടുള്ള ബഹുമാനാർത്ഥം K എന്ന ചിഹ്നം നൽകി നിങ്ങൾ വികസനം നോക്കുകയാണെങ്കിൽ സ്ട്രെസ് വിശകലനത്തെ അടിസ്ഥാനമാക്കിയാണ് K എന്ന ആശയം Kക്ക് MPa റൂട്ട് മീറ്റർ എന്ന ഒരു യൂണിറ്റ് ഉണ്ടെന്നതും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് ഇത് വളരെ തമാശയുള്ള ഒരു യൂണിറ്റാണ് fps ൽ നിന്ന് SI സിസ്റ്റത്തിലേക്ക് യൂണിറ്റുകൾ പരിവർത്തനം ചെയ്യേണ്ടിവരുമ്പോൾ നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട് റൂട്ട് മീറ്റർ ഒരു ശല്യം ആകാൻ പോകുന്നു നിങ്ങൾ അത് മനസ്സിൽ സൂക്ഷിക്കണം ഫ്രാക്ചർ മെക്കാനിക്സിന് മുമ്പ് നമുക്ക് സ്ട്രെസ് കോൺസൺട്രേഷൻ ഫാക്ടർ എന്ന ആശയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇംഗ്ലിസിന്റെ സംഭാവന എന്നു പറയുന്നത് നമുക്ക് ഒരു വിള്ളൽ ഉണ്ടാകുമ്പോൾ സ്ട്രെസ് കോൺസെൻട്രേഷൻ ഇനി സാധുവല്ലെന്ന് പറഞ്ഞ് നമുക്ക് പുതിയ സമീപനങ്ങൾ ആവശ്യമാണ് നിങ്ങൾ സ്ട്രെസ് കോൺസൺട്രേഷൻ ഫാക്ടർ നോക്കുകയാണെങ്കിൽ അതിന് യൂണിറ്റുകളൊന്നുമില്ല ഇത് ഒരു സംഖ്യ മാത്രമാണ് മറുവശത്ത് ഒരു വിള്ളൽ മാതൃകയാക്കാൻ നമുക്ക് സ്ട്രെസ് ഇന്റൻസിറ്റി ഫാക്ടർ എന്ന് വിളിക്കുന്ന ഒരു പാരാമീറ്റർ ഉണ്ട് അതിൽ വളരെ രസകരമായ യൂണിറ്റ് Mpa റൂട്ട് മീറ്റർ ആണ് അപ്പോൾ നമുക്ക് മറ്റൊരു ആശയം ഉണ്ട് അത് റൈസ് അവതരിപ്പിച്ച J ഇന്റഗ്രൽ എന്നറിയപ്പെടുന്ന ആശയമാണ് ഇത് വീണ്ടും ഊർജ്ജം അടിസ്ഥാനമാക്കിയുള്ളതാണ് ഇത് റൈസ്നോടുള്ള ബഹുമാനാർത്ഥമാണ് നമുക്ക് ഇത് J എന്ന് ലേബൽ ചെയ്തിരിക്കുന്നു ഇതിന് ന്യൂട്ടൺ പേർ മില്ലിമീറ്റർ എന്ന യൂണിറ്റാണ് വാസ്തവത്തിൽ നോൺ ലീനിയർ ഫ്രാക്ചർ മെക്കാനിക്സിനും ഇലാസ്റ്റോ പ്ലാസ്റ്റിക് ഫ്രാക്ചർ മെക്കാനിക്സിനും സ്ട്രെസ് ഫീൽഡിനെ മാതൃകയാക്കാൻ J വളരെ സൌകര്യപ്രദമായ ഒരു പാരാമീറ്ററായിരുന്നു സമാന്തരമായിUK യിൽ ആളുകൾ മറ്റൊരു ആശയം വികസിപ്പിച്ചെടുത്തു അത് COD ക്രാക്ക് ഓപ്പണിംഗ് ഡിസ്പ്ലേസ്മെന്റ് എന്നറിയപ്പെടുന്നു ഇത് മില്ലിമീറ്ററിന്റെ പദത്തിൽ ആണ് ഇത് ഡിസ്പ്ലേസ്മെൻറ് അടിസ്ഥാനമാക്കിയുള്ളതാണ് ഇത് വികസിപ്പിച്ചെടുത്തത് വെൽസ് ആണ് ബന്ധപ്പെട്ട മറ്റൊരു ആശയവും ഉണ്ട് അത് CTOD എന്നറിയപ്പെടുന്നു ഇതാണ് ക്രാക്ക് ടിപ്പ് ഓപ്പണിംഗ് ഡിസ്പ്ലേസ്മെന്റ് ഇത് വളരെ തമാശയുള്ള നാമകരണമാണ് നിങ്ങൾ ഒരു ടിപ്പ് എന്ന് പറയുമ്പോൾ ടിപ്പ് ഒരു പോയിന്റാണ് പോയിന്റ് തുറക്കാൻ കഴിയില്ല പക്ഷേ നമുക്ക് ഇപ്പോഴും ഫ്രാക്ചർ പുസ്തകങ്ങളിൽ CTOD എന്ന് വിളിക്കുന്ന ഒരു പാരാമീറ്റർ ഉണ്ട് ക്രാക്ക് ടിപ്പ് ഓപ്പണിംഗ് ഡിസ്പ്ലേസ്മെന്റ് ഡിസ്പ്ലേസ്മെൻറ് ആയി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നമ്മൾ ഏറ്റെടുക്കുമ്പോൾ CTOD എങ്ങനെ നിർവചിക്കപ്പെടുന്നുവെന്ന് നമ്മൾ നോക്കും തൽക്കാലം CTOD ലഭ്യമാണെന്നും COD ലഭ്യമാണെന്നും നിങ്ങൾ മനസ്സിലാക്കുന്നു ഈ പാരാമീറ്ററുകൾ വ്യത്യസ്ത കാഴ്ചപ്പാടുകളിൽ നിന്ന് നോക്കാൻ കഴിയും LEFM ലീനിയർ ഇലാസ്റ്റിക് ഫ്രാക്ചർ മെക്കാനിക്സ് ഉം മറ്റ് പാരാമീറ്ററുകളും ഇലാസ്റ്റോ പ്ലാസ്റ്റിക് ഫ്രാക്ചർ മെക്കാനിക്സ്ന് ബാധകമാണെന്ന് നിങ്ങൾക്കറിയാം അവസാനമായി നമ്മൾ ഫ്രാക്ചർ മാത്രമാണ് കൈകാര്യം ചെയ്യുന്നത് നമുക്ക് G K J CTOD മുതലായ നിരവധി പാരാമീറ്ററുകൾ ഉണ്ട് ധാരാളം ഉണ്ടാകരുത് അവർക്കിടയിൽ പരസ്പരബന്ധം ഉണ്ടായിരിക്കണം വാസ്തവത്തിൽ G യും K യും തമ്മിൽ ഒരു പരസ്പര ബന്ധം നമ്മൾ സ്ഥാപിക്കും LEFM ന്റെ കാര്യത്തിൽ G എന്നത് J ന് തുല്യമാണ് ഇവയിൽ ചില പരസ്പര ബന്ധങ്ങൾ നമ്മൾ സ്ഥാപിക്കും ഫ്രാക്ചർ പ്രശ്നത്തെ ആളുകൾ വിവിധ വീക്ഷണകോണുകളിൽ സമീപിക്കുന്നതിനാലാണ് ഇവ വികസിപ്പിച്ചെടുത്തത് അതുകൊണ്ടാണ് നമുക്ക് വ്യത്യസ്ത പാരാമീറ്ററുകൾ ഉള്ളത് നമുക്ക് പരസ്പരബന്ധം കണ്ടെത്താൻ കഴിയുമ്പോൾ ഫ്രാക്ചർ പ്രക്രിയ വിവിധ രീതികളിലൂടെ നന്നായി മനസ്സിലാക്കി എന്ന ചിന്ത ശക്തിപ്പെടുന്നു നിങ്ങൾ നോക്കേണ്ട രീതി ഇതാണ് ചില സംഭവവികാസങ്ങൾ രാജ്യ നിർദ്ദിഷ്ടമാണ് യുഎസിൽ അവർ പ്രധാനമായും J ഇന്റഗ്രലിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു യുകെയിൽ അവർ COD CTOD എന്നിവയെക്കുറിച്ച് ചിന്തിച്ചു ഇവ അടിസ്ഥാനപരമായി നോൺ ലീനിയർ ഫ്രാക്ചർ മെക്കാനിക്സിനുള്ളതാണ് ഫ്രാക്ചർന്റെ പ്രായോഗിക ഉദാഹരണങ്ങൾ ഇപ്പോൾ നമ്മൾ ചില ഉദാഹരണങ്ങൾ എടുക്കും അതിൽ നമുക്ക് ഒരു വിള്ളൽ മൂലം ആരംഭിച്ച പരാജയങ്ങളുണ്ട് ഒരു വിള്ളൽ വളർച്ചാ ഘട്ടത്തെ തുടർന്ന് ഫ്രാക്ചർ ഉണ്ടെന്ന് കാണിക്കാനാണ് എന്റെ താൽപര്യം ഇത് വളരെ പ്രധാനമാണ് ഇത് ഒരു ആശയപരമായ ഘട്ടമാണ് അത് ഗ്രിഫിത്ത് മനോഹരമായി മനസ്സിലാക്കി നിങ്ങൾ നോക്കുകയാണെങ്കിൽ അദ്ദേഹം ഗ്ലാസിൽ ആണ് പ്രവർത്തിച്ചത് ഒരു വിള്ളൽ വളർച്ചയെ തുടർന്ന് ഫ്രാക്ചർ ഉണ്ടാകുമെന്ന് അദ്ദേഹം എങ്ങനെ മനസ്സിലാക്കി എന്ന് നമ്മൾ ഊർജ്ജ പ്രകാശന നിരക്കിനെക്കുറിച്ചുള്ള അധ്യായത്തിൽ വിശദമായി കാണും അങ്ങനെയാണ് എല്ലാ ഘടനകളും പരാജയപ്പെട്ടത് അതിനാൽ ഇതിന് യുക്തിസഹമായ ഒരു വിശദീകരണം നൽകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു നമ്മൾ അതിലേക്ക് പോകുന്നതിനുമുമ്പ് പരാജയങ്ങളുടെ വിശദാംശങ്ങൾ നോക്കുകയാണെങ്കിൽ അത് നമുക്ക് ഒരു മാനസിക ചിത്രം നൽകും അതെ വിള്ളലിന്റെ വളർച്ചാ ഘട്ടമുണ്ട് തുടർന്ന് ഫ്രാക്ചറും ഇത് മാത്രമല്ല നിങ്ങൾ വിള്ളൽ നോക്കുമ്പോൾ അതിന് ഒരു പ്രത്യേക ആകൃതിയും ഉണ്ട് നമ്മൾ ഒരു അനലിറ്റിക്കൽ മോഡലിംഗ് ചെയ്യാൻ താൽപ്പര്യപ്പെടുമ്പോൾ ലളിതമായ ജോമട്രി രൂപങ്ങൾ നേടാൻ നമ്മൾ താൽപ്പര്യപ്പെടുന്നു മാത്രമല്ല നിങ്ങൾക്കത് കാണാൻ കഴിയും ഇത് ഒരു എലിപ്സ്ന്റെ ക്വാർട്ടർ ആയി മാതൃകയാക്കാം അത് ഒരു കോർണർ ക്രാക്ക് ആണ് നമുക്ക് ഇവിടെ ഒരു കോണുണ്ട് ഈ കോർണർ ക്രാക്കിനെ ഒരു എലിപ്സ്ന്റെ ക്വാർട്ടർ ആയി മാതൃകയാക്കാം വാസ്തവത്തിൽ നമ്മൾ ഇത് ചെയ്യും നമ്മുടെ എല്ലാ വിശകലന വികസനത്തിലും നമ്മൾ ഒരു അർദ്ധ എലിപ്റ്റിക്കൽ വിള്ളൽ അല്ലെങ്കിൽ ഉള്ളിൽ ഒരു എലിപ്റ്റിക്കൽ ന്യൂനത എടുക്കും ഇവയെല്ലാം ഗണിതശാസ്ത്രപരമായി കൈകാര്യം ചെയ്യാൻ എളുപ്പമാണ് അപാകതയെ ഈ രീതിയിൽ മാതൃകാപരമായ വിശകലനത്തിന് മാതൃകയാക്കാം എന്തായാലും ഇത് ന്യൂനതയുടെ സ്വഭാവവുമായി പൊരുത്തപ്പെടും എങ്ങനെയാണ് ഈ വിള്ളൽ ആരംഭിച്ചത് ദ്രവിക്കൽ മൂലമാണ് ഇത് ആരംഭിച്ചത് ഈ മേഖലയും ഈ മേഖലയും തമ്മിലുള്ള ഘടന വ്യത്യാസം നിങ്ങൾക്കിവിടെ കാണാം അതാണ് നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത് വിള്ളൽ വളർന്നുവെന്ന് ഇത് സൂചിപ്പിക്കുന്നു ഇതാണ് വിള്ളൽ വളർച്ചാ ഘട്ടം ഇതാണ് ഫ്രാക്ചർ ഉപരിതലം ഇത് യഥാർത്ഥത്തിൽ ബോൾട്ട് ഹോൾ ഫ്രാക്ചർ നിലനിർത്തുന്ന ഒരു ഹെലികോപ്റ്റർ ബ്ലേഡ് ആയിരുന്നു കടപ്പാട് എൽസെവിയറിലേക്ക് പോകുന്നു നമ്മൾ മറ്റൊരു ഉദാഹരണം എടുക്കുന്നു ഇതിന്റെ വിശദമായ രേഖാചിത്രം നിങ്ങൾ തയ്യാറാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ന്യൂനതയുടെ ആകൃതി എന്താണ് എന്നതാണ് നമ്മുടെ ശ്രദ്ധാകേന്ദ്രം കാരണം പിന്നീട് നമ്മൾ അതിനെ ഒരു ക്വാർട്ടർ എലിപ്സ് ആയി മാതൃകയാക്കാൻ പോകുന്നു ആ സമയത്ത് കുറവുകൾ ഇതുപോലെയായിരുന്നു എന്ന് നമുക്ക് ഓർമ്മിക്കാം അതാണ് പ്രധാനം വിശകലന വികസനം യഥാർത്ഥ നിരീക്ഷണവുമായി പൊരുത്തപ്പെടണം അല്ലാത്തപക്ഷം വിശകലന വികസനം ഉപയോഗശൂന്യമാണ്

മറ്റൊരു പരാജയം റെയിലുകളുടെ കാര്യത്തിൽ നിങ്ങൾ കാണുന്നു റെയിലുകൾക്ക് ഒരു സാധാരണ ലോഡിംഗ് രീതിയുണ്ട് നമുക്ക് കോൺടാക്റ്റ് ലോഡിംഗ് ഉള്ളതിനാൽ വിള്ളൽ ഉപരിതലത്തിന് താഴെയാണെന്ന് നിങ്ങൾ കണ്ടെത്തി കോൺടാക്റ്റ് ലോഡിംഗ് ചെയ്യുമ്പോൾ പരമാവധി സ്ട്രെസ് ഉപരിതലത്തിനടിയിൽ സംഭവിക്കുന്നു ഇത് ഉപരിതലത്തിൽ സംഭവിക്കുന്നില്ല മിക്ക പ്രശ്നങ്ങളിലും കാണുക പരമാവധി സ്ട്രെസ് ഉപരിതലത്തിൽ സംഭവിക്കുന്നു കോൺടാക്റ്റ് പ്രശ്നങ്ങൾ വളരെ വ്യത്യസ്തമാണ് ഇത് ഗിയറുകളിലെ പ്രശ്നങ്ങളിലൊന്നാണ് കാരണം നിങ്ങൾക്ക് ഇൻവോലുട്ട് പ്രൊഫൈൽ ഉണ്ട് അവ സമ്പർക്കം പുലർത്തുന്നു പുറത്തുവരുന്ന മെറ്റീരിയലുകളുടെ തട്ടുകൾ നിങ്ങൾക്കറിയാം കാരണം വിള്ളലുകൾ ഉപരിതലത്തിന് താഴെയായി സൃഷ്ടിക്കുകയും തുടർന്ന് വസ്തുക്കളുടെ തട്ടുകൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നു അതിനാൽ നിങ്ങൾ ഇത് മനസ്സിലാക്കേണ്ടതുണ്ട് റെയിൽ ഗതാഗതത്തിൽ നമ്മൾ വളരെ ദൂരം പിന്നിട്ടിരിക്കുന്നു നമ്മൾ മണിക്കൂറിൽ 15 മൈൽ വേഗതയിലാണ് സഞ്ചരിച്ചിരുന്നത് എന്ന് ഞാൻ പറഞ്ഞു ഇപ്പോൾ മണിക്കൂറിൽ 350 മൈൽ അതിനാൽ റെയിലുകളുടെ ഫ്രാക്ചർ സ്വഭാവത്തെക്കുറിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട് ആകൃതി കാരണം ഇത് വൃക്ക ആകൃതിയിലുള്ള വിള്ളൽ എന്നറിയപ്പെടുന്നു മുഴുവൻ സിസ്റ്റത്തിനും സാധാരണ ഫോട്ടോഇലാസ്റ്റിക് ഫ്രിഞ്ച് പാറ്റേൺ നിങ്ങൾ കാണുന്നു നിങ്ങൾ വിള്ളലിന് കാണുന്നില്ല നിങ്ങൾ ത്രിമാന ഫോട്ടോ ഇലാസ്റ്റിസിറ്റിപരീക്ഷണം നടത്തേണ്ടതുണ്ട് ഇവിടെ നിങ്ങൾ സ്ട്രെസ് ഫ്രീസു ചെയ്യുന്നു തുടർന്ന് വിള്ളലിന് ലംബമായി കഷ്ണങ്ങൾ ഉണ്ടാക്കുന്നു എന്നിട്ട് നിങ്ങൾ വിശകലനം ചെയ്യുക അത്തരമൊരു ജോലി ഞങ്ങളുടെ ലബോറട്ടറിയിൽ ചെയ്തു

ദ്വാരത്തിന്റെ അതിർത്തിയിൽ സ്ട്രെസ് ഇന്റെൻസിറ്റി ഘടകത്തിന്റെ വ്യത്യാസം നമ്മൾ കണ്ടു ഇത് മേലിൽ സ്ഥിരമായി നിലനിൽക്കില്ല ഇത് ഒരു ത്രിമാന പ്രശ്നമാണ് പ്രശ്നം വളരെ സങ്കീർണ്ണമാണ് നിങ്ങൾ അത് മനസ്സിലാക്കേണ്ടതുണ്ട് പഴയ റെയിൽ ഭാഗങ്ങൾ ഇതിൽ പരാജയപ്പെടുന്നതായി രേഖപ്പെടുത്തിയിട്ടുണ്ട് കഴിഞ്ഞ 20 വർഷമായി ഇത് പഠനവിഷയമാണ് ഇവിടെ പ്രധാന കാര്യം വിള്ളൽ ഉപരിതലത്തിന് താഴെയായി പ്രത്യക്ഷപ്പെട്ടു എന്നതാണ് ഇവിടെ വീണ്ടും നിങ്ങൾ വിള്ളൽ ഉപരിതലവും ഫ്രാക്ചർ പ്രതലവും കാണുന്നു അതിനാൽ വിള്ളൽ വളർച്ച ഘട്ടത്തെ തുടർന്ന് ഫ്രാക്ചർ ഉണ്ട് ഇതാണ് ഇവിടെ ഊന്നിപ്പറയുന്നത് നിങ്ങൾ ബീം സിദ്ധാന്തം നോക്കുകയാണെങ്കിൽ നമ്മൾ അത് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് ക്ലാസിൻറെ അരമണിക്കൂറിനുള്ളിൽ വികസിപ്പിക്കുന്നു നിങ്ങൾ ചരിത്രം നോക്കുകയാണെങ്കിൽ 200 വർഷമായി ഈ പ്രശ്നം പരിഹരിക്കാൻ ബുദ്ധിമാനായ മനസ്സിന് എടുത്തു ലോകമെമ്പാടുമുള്ള ശാസ്ത്രജ്ഞരുടെ 200 വർഷത്തെ ഏകാഗ്ര പരിശ്രമത്തിനുശേഷം മാത്രമേ ഒരു ബെൻഡിങ് ബീമിൽ വികസിപ്പിച്ച സ്ട്രെസ് പ്രശ്നം പരിഹരിക്കാൻ കഴിഞ്ഞുള്ളൂ ഒരു ക്ലാസ്സിൽ നമ്മൾ വെറും അരമണിക്കൂർ എടുത്തുള്ളൂ എന്ന് സങ്കൽപ്പിക്കുക

അതിനാൽ സമാനമായി ഞാൻ വീണ്ടും വീണ്ടും ഊന്നിപ്പറയുന്നു വിള്ളലിന്റെ വളർച്ചാ ഘട്ടമുണ്ട് തുടർന്ന് ഫ്രാക്ചർ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ആശയമായിരുന്നു ഫ്രാക്ചർനുള്ള അനുയോജ്യമായ ഒരു മാർഗം വിശദീകരിക്കാനും ഒരു മാതൃക പുറത്തു കൊണ്ടുവരുവാനും ഗ്രിഫിത്തിന് മാത്രമേ കഴിഞ്ഞുള്ളൂ നമ്മൾ മറ്റൊരു ഉദാഹരണം എടുക്കുന്നു നമ്മൾ കണ്ട ഉദാഹരണങ്ങൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ അവ പ്രധാനമായും ഫാറ്റിഗ് ലോഡിംഗിന് വിധേയമായിരുന്നു ഇപ്പോൾ നമുക്ക് മറ്റൊരു ഉദാഹരണമുണ്ട് അത് പ്രധാനമായും ദ്രവിക്കൽ മൂലമാണ് കൂടാതെ ഈ പരാജയത്തിൽ മറ്റൊരു വശം കാണാം നിങ്ങൾ ഈ തകർന്ന ബോൾട്ട് നോക്കുന്നു ഞാൻ ഇത് വലുതാക്കും ഇവിടെ ഒരു വിള്ളൽ ഉണ്ടെന്ന് നിങ്ങൾ കണ്ടെത്തും ഇവിടെ മറ്റൊരു വിള്ളൽ ഉണ്ട് അതിനാൽ ഇതാണ് സ്വാഭാവികം യഥാർത്ഥ സാഹചര്യങ്ങളിൽ ഘടനകൾക്ക് ആന്തരിക കുറവുകൾ ഉണ്ടാകുമെന്ന് നിങ്ങൾ പറയുമ്പോൾ ആന്തരിക കുറവുകൾ ഒന്നായിരിക്കണമെന്നില്ല അവ പലതാകാം നിർണായകമായ ന്യൂനതയിലേക്ക് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കും നമുക്ക് അത് ചിത്രത്തിൽ കാണാൻ കഴിയും ഇപ്പോൾ നിങ്ങൾ വ്യത്യസ്ത ഉപരിതലങ്ങൾ കണ്ടു ഇതിന് മറ്റൊരു ടെക്സ്ചർ ഉണ്ട്കൂടാതെ ഇവിടെ മറ്റൊരു ടെക്സ്ചർ ഉണ്ട് ഇതാണ് വിള്ളലിന്റെ വളർച്ചാ ഘട്ടം എന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ കഴിയും ഈ വിള്ളൽ ഇതിനേക്കാൾ വലുതായി ഒടുവിൽ ഇത് അതിന്റെ പരാജയത്തിന് കാരണമാകുമായിരുന്നു ഇത് ഇതിന്റെ ഒരു വശമാണ് നമുക്ക് ഒന്നിലധികം വിള്ളലുകൾ ഉണ്ടാകാം അവയിലൊന്ന് നിർണായകമാകാം ഈ ഉദാഹരണത്തിലൂടെ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു വശമുണ്ട് ഇവിടെ പരാജയം ചുവടെ കുറച്ച് ത്രെഡുകൾ താഴെയാണ് ഇതൊരു ത്രെഡ് കണക്ഷനാണ് ആദ്യ രണ്ട് ത്രെഡുകളിൽ ഇത് സംഭവിച്ചിട്ടില്ല സാധാരണയായി ഇത് ഫാറ്റിഗ് മൂലം ആണെങ്കിൽ ആദ്യത്തെ രണ്ട് ത്രെഡുകൾ മാത്രമേ പരാജയപ്പെടുകയുള്ളൂ ഇത് താഴെയുള്ള കുറച്ച് ത്രെഡുകൾ പരാജയപ്പെട്ടു കാരണം സ്ട്രെസ് കോറോഷെൻ ക്രാക്കിംഗുമായി ബന്ധപ്പെട്ടതാണ് ഇത് ചുരുക്കത്തിൽ SCC എന്ന് പറയപ്പെടുന്നു ഫ്രാക്ചർ മെക്കാനിക്സിൽ നിരവധി ചുരുക്ക പദങ്ങളുണ്ട് മോഡ് I ലോഡിംഗിനായുള്ള സാധാരണ ഫോട്ടോലാസ്റ്റിക് ഫ്രിഞ്ച്കൾ ചുരുക്കെഴുത്ത് നിങ്ങളുടെ മാനസിക ചിത്രവുമായി ബന്ധിപ്പിച്ചു അത് എന്താണ് സൂചിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയണം SCC എന്നാൽ സ്ട്രെസ് കോറോഷൺ ക്രാക്കിംഗ് അതിനർത്ഥം എനിക്ക് ആൾട്ടർനേറ്റിംഗ് സ്ട്രെസ് ഇല്ല എനിക്ക് സ്ട്രെസ്ന്റെ സ്ഥിരമായ ഒരു മൂല്യമുണ്ട് എന്നിരുന്നാലും ദ്രവിക്കൽ കാരണം വിള്ളൽ വളർന്നു ഇത് മറ്റൊരു വിള്ളൽ വളർച്ചാ സംവിധാനമാണ് വാസ്തവത്തിൽ ഒരു പ്രത്യേക അധ്യായത്തിൽ വ്യത്യസ്ത വിള്ളൽ വളർച്ചാ സംവിധാനങ്ങൾ നമ്മൾ കാണും ഇപ്പോൾ ഒരു പരാജയം നിങ്ങൾ കാണുന്നു അത് SCC വേഗത്തിലാക്കുന്നു ബോൾട്ടിന്റെ പരാജയം ഹൈഡ്രജൻ സങ്കീർണത മൂലമാണെന്ന് മറ്റൊരു വിവരവും ലഭ്യമാണ് ഹെൻഡ്രിക്സ് ഗ്രൂപ്പിൽ നിന്നുള്ള ഫോട്ടോ ലഭ്യമായ വളരെ നല്ലൊരു ചിത്രമാണ് ഇത് വിള്ളൽ വളർച്ചയ്ക്ക് ശേഷമുള്ള ഫ്രാക്ചർ സംവിധാനമായി SCC യുടെ പങ്ക് കാട്ടിത്തരുന്നു നമുക്ക് ഒന്നിലധികം വിള്ളലുകൾ ഉണ്ടാകാം അവയിലൊന്ന് കൂടുതൽ അപകടകരമാണ് ഫ്രാക്ചർ മെക്കാനിക്സിൽ ഫോട്ടോഇലാസ്റ്റിറ്റിയുടെ പങ്ക് നമ്മൾ കണ്ടു വാസ്തവത്തിൽ ഫോട്ടോഇലാസ്റ്റിക് ഫ്രിഞ്ച്കളുടെ ജോമട്രി സവിശേഷതകൾ കാണുന്നതിന് ഞാൻ നിങ്ങളുടെ കണ്ണുകളെ പരിശീലിപ്പിക്കാൻ പോകുന്നു വാസ്തവത്തിൽ വൃത്താകൃതിയിൽ ദ്വാരമുള്ള ഒരു പ്ലേറ്റിന്റെ സ്ട്രെസ് കോൺസെൻട്രേഷൻ എലിപ്റ്റിക്കൽ ദ്വാരമുള്ള ഒരു പ്ലേറ്റിന്റെ സ്ട്രെസ് കോൺസെൻട്രേഷൻ ഒരു വിള്ളൽ എന്നിവ താരതമ്യം ചെയ്യുമ്പോൾ സമാനമായ ഒരു ചിത്രം കണ്ടു ക്രാക്ക് മുഖങ്ങൾ എങ്ങനെ നീങ്ങുന്നു എന്നതിനെ ആശ്രയിച്ച് ക്രാക്ക് മോഡുകൾ മോഡ് 1 മോഡ് 2 മോഡ് 3 എന്നിങ്ങനെ തരംതിരിക്കാമെന്ന് നിങ്ങൾ മനസ്സിലാക്കി വിള്ളൽ മുഖങ്ങൾ ഇതുപോലെ തുറക്കുന്നുവെങ്കിൽ നിങ്ങൾ അതിനെ മോഡ് 1 എന്ന് വിളിക്കുന്നു ഇതാണ് നമുക്ക് ഇവിടെയുള്ളത് ഞാൻ വീണ്ടും ഈ ആനിമേഷൻ ഇടും നമ്മൾ ലോഡ് പ്രയോഗിച്ചു ലോഡ് ക്രമേണ വർദ്ധിക്കുന്നതിനനുസരിച്ച് കൂടുതൽ കൂടുതൽ ഫ്രിഞ്ച്കൾ വരുന്നു ഇതിന്റെ ഒരു രേഖാചിത്രം തയ്യാറാക്കുക നമുക്ക് ഒരു വിള്ളൽ അക്ഷം ഉണ്ട് ഇത് വിള്ളൽ അച്ചുതണ്ടിന് സിമട്രിയാണ് കൂടാതെ ഫ്രിഞ്ച്കൾ മുന്നോട്ട് ചരിഞ്ഞതാണ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മൾ മോഡ് 1 ഇൽ നിന്ന് മോഡ് 2 ലേക്ക് പോകുമ്പോഴോ മോഡ് 1 മോഡ് 2 എന്നിവയുടെ സംയോജനത്തിലോ വ്യത്യസ്ത ജോമട്രി സവിശേഷതകൾ കാണിക്കുന്നതിനുള്ള നേട്ടം ഫോട്ടോഇലാസ്റ്റിറ്റിക്ക് ഉണ്ട് ക്രാക്ക് ടിപ്പിൽ ലോഡുചെയ്യുന്നത് ഒരു വെല്ലുവിളിയാണ് ഒരു നിർദ്ദിഷ്ട പ്രായോഗിക സാഹചര്യത്തിൽ ക്രാക്ക് ടിപ്പിൽ നിലവിലുള്ള ലോഡിംഗ് മോഡ് എന്താണെന്ന് എങ്ങനെ തിരിച്ചറിയാം ഡിസൈൻ ആവശ്യങ്ങൾക്കായി ഫ്രാക്ചർ മെക്കാനിക്സ് ഉപയോഗിക്കേണ്ടതുണ്ടെങ്കിൽ എനിക്ക് രണ്ട് അളവുകൾ ആവശ്യമാണ് തന്നിരിക്കുന്ന കോൺഫിഗറേഷനായി സ്ട്രെസ് ഇന്റെൻസിറ്റി ഫാക്ടർ എന്താണെന്ന് ഞാൻ അറിയണം തന്നിരിക്കുന്ന മെറ്റീരിയലിന് ഫ്രാക്ചർ ടഫ്നെസ് എന്താണ് ഒരു മെറ്റീരിയൽ ടെസ്റ്റിംഗ് പരീക്ഷണമാണ് അത് നിർണ്ണയിക്കുന്നത് ഒരു വിശകലന വീക്ഷണകോണിൽ നിന്നോ സംഖ്യാ കാഴ്ചപ്പാടിൽ നിന്നോ പരീക്ഷണാത്മക വീക്ഷണകോണിൽ നിന്നോ ഒരു പ്രത്യേക പ്രശ്നത്തിന് K 1 K 2 K 3 എന്നീ സ്ട്രെസ് ഇന്റെൻസിറ്റി ഫാക്ടർ എന്തൊക്കെയാണെന്ന് ഞാൻ വിലയിരുത്തേണ്ടതുണ്ട് ഞാൻ ഒരു പരീക്ഷണാത്മക റൂട്ട് എടുക്കുകയാണെങ്കിൽ ഡാറ്റ കുറയ്ക്കുന്നതിനുള്ള എന്റെ അൽഗോരിതം അനുയോജ്യമായ രീതിയിൽ നിർമ്മിക്കാവുന്നതാണ് ഇത് മോഡ് 1 ആണെന്ന് എനിക്കറിയാമെങ്കിൽ പരീക്ഷണാത്മക ഡാറ്റയുടെ മോഡ് 1 വിലയിരുത്തൽ എന്താണ് ഇത് മോഡ് 2 ആണെന്ന് എനിക്കറിയാമെങ്കിൽ എനിക്ക് ഉചിതമായ സമവാക്യങ്ങൾക്കായി പോയി വിലയിരുത്താം ഇത് എന്റെ പ്രവർത്തനത്തെ കൂടുതൽ ലളിതമാക്കുന്നു ഒരു സംഖ്യാ സമീപനത്തിൽ നമുക്ക് പലഅൽഗോരിതം ഉണ്ട് അത് ഊർജ്ജ കാഴ്ചപ്പാടിൽ നിന്ന് നൽകുന്നു ഇതിന്റെയെല്ലാം ആകത്തുക മാത്രം ഇത് വേർതിരിക്കുന്നതിനുള്ള പ്രത്യേക ശ്രമങ്ങൾ നിങ്ങൾ കണ്ടെത്തണം മോഡ് II ലോഡിംഗിനായുള്ള സാധാരണ ഫോട്ടോലാസ്റ്റിക് ഫ്രിഞ്ച്കൾ ലോഡിംഗ് മോഡ് തിരിച്ചറിയുന്നത് എല്ലായ്പ്പോഴും അത്യാവശ്യമാണ് പ്രശ്നം മനസിലാക്കാൻ ഇത് നിങ്ങളെ അധികമായി സഹായിക്കുന്നു ഇപ്പോൾ നിങ്ങൾ മോഡ് 1 കണ്ടു മോഡ് 2 ൽ ദൃശ്യമാകുന്ന തരത്തിലുള്ള ഫ്രിഞ്ച്കൾ എന്താണെന്ന് നമ്മൾ കാണും ക്ലാസ് എന്നോട് പൂർണമായും യോജിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് ഫ്രിഞ്ച്കൾ വളരെ വ്യത്യസ്തമാണ് ഞാൻ അതിന്റെ ഒരു സൂം ഉണ്ടാക്കും മോഡ് 1 ൽ ദൃശ്യമാകുന്നതിൽ നിന്ന് ഇത് വളരെ വ്യത്യസ്തമാണ് നിങ്ങൾ ഇതിന്റെ ഭംഗിയുള്ള ഒരു രേഖാചിത്രം തയ്യാറാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു നമ്മൾ ഈ സവിശേഷതകൾ പരിശോധിക്കും നിങ്ങൾ നോക്കേണ്ടത് എന്താണ് എനിക്ക് ഇവിടെ വിള്ളൽ ഉണ്ട് ഒരു പരീക്ഷണത്തിൽ നിങ്ങൾ അടിസ്ഥാനപരമായി വളരെ നേർത്ത ഒരു കഷ്ണം ഉണ്ടാക്കുന്നു അറ്റം മൂർച്ചയുള്ളതാണ് ഇതാണ് നിങ്ങൾ ചെയ്യുന്നത് ക്രാക്ക് ടിപ്പിന് മുമ്പുള്ള പ്രദേശത്തിനായി വിശകലന പരിഹാരങ്ങൾ പൊരുത്തപ്പെടും ഇത്തരത്തിലുള്ള ഒരു ഫ്രിഞ്ച് പാറ്റേൺ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു കുട്ടിക്ക് പോലും പറയാൻ കഴിയും ജോമട്രി സവിശേഷത കൊണ്ട് മോഡ് 1 അല്ലെങ്കിൽ മോഡ് 2 ആകട്ടെ വ്യത്യസ്ത സാഹചര്യങ്ങൾ അവതരിപ്പിക്കുകയാണെങ്കിൽ ബാഹ്യ ലോഡിംഗ് ക്രാക്ക് ടിപ്പിന് സമീപം ഒരു മോഡ് 2 ലോഡിംഗിന് കാരണമാകുമെന്ന് നമുക്ക് എളുപ്പത്തിൽ പറയാൻ കഴിയും നമുക്ക് ഫ്രിഞ്ച്കളുണ്ട് ഇതുപോലെ തിരശ്ചീനമാണ് ഇതുപോലെ ലൂപ്പുകൾ ഉണ്ട് നമുക്ക് ഇത് ഇതുപോലെ കാണാനും കഴിയും ഇത് തിരശ്ചീനമായി എട്ട് പോലെയാണ് നമുക്ക് അത് അങ്ങനെ സങ്കൽപ്പിക്കാൻ കഴിയും മിക്സഡ് മോഡ് ലോഡിംഗിനായുള്ള സാധാരണ ഫോട്ടോലാസ്റ്റിക് ഫ്രിഞ്ച്കൾ മോഡ് 1 ആയി കണ്ടതുമായി താരതമ്യപ്പെടുത്തുമ്പോൾ തികച്ചും വ്യത്യസ്തമാണ് ഇപ്പോൾ ഒരു മിക്സഡ് മോഡിൽ കാണുന്നവ

ബാഹ്യ ലോഡിംഗുമായി ബന്ധപ്പെട്ട് വിള്ളലിലെ കോൺഫിഗറേഷൻ എങ്ങനെയെന്ന് നോക്കുക വിള്ളൽ ചെരിഞ്ഞതിനാൽ നമുക്ക് ഒരു ആക്സിയൽ ലോഡിംഗ് പ്രയോഗിച്ചു നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഞാൻ വിള്ളലിന്റെ നീളം a ആയി ഇട്ടു ഈ കോഴ്സിൽ നമ്മൾ ഉപയോഗിക്കുന്ന ചിഹ്നമാണിത് മറ്റൊരു പ്രധാന പാരാമീറ്റർ നിങ്ങൾ W എന്ന ചിഹ്നത്താൽ വീതിയെ പ്രതിനിധീകരിക്കുന്നു എല്ലാ ഫ്രാക്ചർ മെക്കാനിക്സ് സമീപനത്തിലും a ബൈ W എന്ന അനുപാതം വളരെ പ്രധാനമാണ് ഫ്രാക്ചർ സിദ്ധാന്തം വികസിപ്പിക്കാൻ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു പരാമീറ്ററാണ് കാരണം ചെറിയ വിള്ളലുകൾ ഒരു പ്രത്യേക രീതിയിൽ പ്രവർത്തിക്കും ദൈർഘ്യമേറിയ വിള്ളലുകൾ മറ്റൊരു രീതിയിൽ പ്രവർത്തിക്കും അതിനാൽ a ബൈ W അനുപാതം വളരെ പ്രധാനമാണ് ഒരു വിശകലന പരിഹാരമുണ്ടെങ്കിൽ a ബൈ W ന്റെ ഒരു പ്രത്യേക മൂല്യം വരെ വിശകലന പരിഹാരം സാധുതയുള്ളതാകാം അതിനാൽ a ബൈ W മറ്റൊരു പ്രധാന പാരാമീറ്ററാണ് ഈ ഫ്രിഞ്ച് പാറ്റേൺ ഞാൻ വലുതാക്കും ഞാൻ ലോഡ് ഒന്നിനുപുറകെ ഒന്നായി പ്രയോഗിക്കും കൂടാതെ ഫ്രിഞ്ച്കൾ എങ്ങനെ വികസിക്കുന്നുവെന്ന് നിങ്ങൾ കാണും

നിങ്ങൾ ഒരു പ്രധാന നിരീക്ഷണം നടത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ആദ്യം വ്യത്യസ്ത ലോഡുകൾക്കായി വികസിപ്പിച്ചെടുത്ത ഫ്രിഞ്ച്കൾ നോക്കുക ആദ്യം എനിക്ക് ഇത് ഒരു ക്രാക്ക് ആക്സിസ് ആയി ഉണ്ട് മോഡ് 1 ഇൽ നമ്മൾ കണ്ടതു പോലെ ഫ്രിഞ്ച്കൾ ചരിഞ്ഞിരിക്കുന്നു പക്ഷേ അവ ക്രാക്ക് ആക്സിസ്നു സിമട്രി അല്ല ഇത് ഒരു നിരീക്ഷണമാണ് മറ്റൊരു നിരീക്ഷണം വിള്ളലിന്റെ ഒരു വശത്തും വിള്ളലിന്റെ മറ്റൊരു വശത്തും കാണപ്പെടുന്ന ഫ്രിഞ്ച്കൾ ഒരേ വലുപ്പത്തിലല്ല മോഡ് 1 ലോഡിംഗിന്റെ കാര്യത്തിൽ ഫ്രിഞ്ച്കൾ ക്രാക്ക് ആക്സിസിനു കൃത്യമായി സിമട്രിയായിരുന്നു മാത്രമല്ല അവ സിമട്രിയായി ചരിഞ്ഞിരിക്കുന്നു മോഡ് 1 മോഡ് 2 എന്നിവയുടെ സംയോജനത്തിലേക്ക് നിങ്ങൾ വരുന്ന നിമിഷം ക്രാക്ക് ആക്സിസിനു ഇത് സിമട്രി അല്ല ഇതാണ് നിങ്ങളുടെ ഒന്നാമത്തെ നിരീക്ഷണം ഞാൻ വീണ്ടും തുടർച്ചയായി മാതൃക ലോഡുചെയ്യും വിള്ളലിന്റെ ഒരു വശവും വിള്ളലിന്റെ മറുവശവും നിങ്ങൾ നിരീക്ഷിക്കും അവ ഒരേ വലുപ്പത്തിലുള്ളവയല്ല എന്ന് നമുക്ക് നിരീക്ഷിക്കാനാകും ഞാൻ പതുക്കെ വർദ്ധിപ്പിക്കുകയും ഫ്രിഞ്ച്കൾ എങ്ങനെ വികസിക്കുകയും ചെയ്യുന്നുവെന്ന് നമുക്ക് കാണാൻ കഴിയും നമുക്ക് ഈ വശത്ത് ഫ്രിഞ്ച് ഉണ്ട് മറുവശത്തും ഫ്രിഞ്ച് ഉണ്ട് അവ വ്യത്യസ്ത വലുപ്പത്തിലുള്ളവയാണ് അതിനാൽ ഒരു യഥാർത്ഥ ഘടനയിൽ നിങ്ങൾ ഒരു ഫോട്ടോഇലാസ്റ്റിക് പരിശോധന നടത്തുമ്പോൾ ഫ്രിഞ്ച്കൾ വ്യത്യസ്ത വലുപ്പത്തിലുള്ളവയാണെന്നും അവ സിമട്രികളല്ലെന്നും കണ്ടെത്തിയാൽ ഇത് ഒരു മിക്സഡ് മോഡ് സാഹചര്യമാണെന്ന് നമുക്ക് ഉടൻ നിഗമനം ചെയ്യാം ഇടത്തരം നീളമുള്ള വിള്ളലുകൾക്കാണ് ഇതെല്ലാം ചെയ്യുന്നത് ഞാൻ നീളമുള്ള വിള്ളലുകൾ എടുത്തിട്ടില്ല വാസ്തവത്തിൽ വളരെ രസകരമായ പ്രായോഗിക ഉദാഹരണങ്ങൾ നമ്മൾ കാണും അതിൽ വിള്ളൽ നീളം കൂടുമ്പോൾ സ്ഥിതി എങ്ങനെ മാറുന്നു എന്ന് നമ്മൾ കാണും എഞ്ചിനീയറിംഗിൽ നിങ്ങൾ കണ്ടുമുട്ടുന്ന മറ്റൊരു പ്രധാന പ്രശ്നം നമ്മൾ ഏറ്റെടുക്കും അവിടെ നമുക്ക് ഒരു അനുലർ പ്ലേറ്റ് ഉണ്ട് ഈ പ്ലേറ്റിൽ എന്താണ് ചെയ്യുന്നത് നിങ്ങൾ ഒരു വലുപ്പം കൂടിയ ഒരു വടി കയറ്റുന്നു അതിലൂടെ നിങ്ങൾ ആന്തരിക ഉപരിതലത്തിൽ ഒരു മർദ്ദം അവതരിപ്പിക്കുന്നു ഒരു റേഡിയൽ ദിശയിൽ ഒരു വിള്ളൽ പുരോഗമിക്കുന്നതായി നിങ്ങൾക്ക് നിരീക്ഷിക്കാൻ ആവും കൂടാതെ മുഴുവൻ മാതൃകയും ഒടിഞ്ഞു നമുക്ക് ആന്തരിക സ്ട്രെസ് ഉണ്ടാകുമ്പോൾ നമുക്ക് വിള്ളലുകൾ റേഡിയൽ ആയി വികസിക്കാമെന്ന് ഇത് സ്ഥിരീകരിക്കുന്നു ഒരു പ്രഷർ വെസൽ ഇൽ നമുക്ക് ഒന്നിലധികം വിള്ളലുകൾ ഉണ്ടാകുമ്പോൾ വിള്ളലുകൾ എങ്ങനെ പ്രതിപ്രവർത്തിക്കുന്നുവെന്ന് കാണാൻ ഒരു പഠനം നടത്തി നമ്മൾ അത് കാണും അതിനാൽ പ്രഷർ വെസൽൻറെ കാര്യത്തിൽ റേഡിയൽ വിള്ളലുകൾ ആന്തരിക അതിർത്തിയിൽ നിന്ന് പുറപ്പെടുന്നു നിങ്ങളുടെ ലാമിസ് പ്രശ്നത്തിൽ നിന്ന് ആന്തരിക അതിർത്തിയിൽ ഹൂപ്പ് സ്ട്രെസ് പരമാവധി ആണെന്ന് നിങ്ങൾക്കറിയാം ആന്തരിക അതിർത്തിയിൽ നമുക്ക് ഹൂപ്പ് സ്ട്രെസ് പരമാവധി ഉള്ളപ്പോൾ ആന്തരിക അതിർത്തിയിൽ വിള്ളൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പുറത്തേക്കു വരുമ്പോൾ ഹൂപ്പ് സ്ട്രെസ് കുറയുന്നു ഈ സവിശേഷത കൊണ്ട് നിങ്ങൾ എന്താണ് കണ്ടെത്തുന്നത് ക്രാക്ക് ടിപ്പിൽ നിലവിലുള്ള ലോഡിംഗ് ഏതാണ് ഇത് പ്രധാനമായും മോഡ് 1 ആണ് കാരണം നമുക്ക് ക്രാക്ക് ആക്സിസ്സിനു സിമട്രി ഉണ്ട് ഇതാണ് ഒന്നാമത്തെ നിരീക്ഷണം ഇപ്പോൾ ഞാൻ ഇത് ചെയ്യും ഞാൻ ഇത് കൂടുതൽ വലുതാക്കും കൂടാതെ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ കൂടി നിരീക്ഷിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഇത് മതിയായത്ര വലുതാണെന്ന് ഞാൻ കരുതുന്നു ഒന്ന് കൂടി കാണട്ടെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ടോ ഇത് ഒരു വിള്ളലാണ് മുമ്പത്തെ ഉദാഹരണങ്ങളിൽ ഫ്രിഞ്ച്കൾ മുന്നോട്ട് ചരിഞ്ഞതായി നമ്മൾ കണ്ടു ഇവിടെ ഫ്രിഞ്ച്കൾ എങ്ങനെയാണ് ഫ്രിഞ്ച്കൾ പിന്നിലേക്ക് ചരിഞ്ഞിരിക്കുന്നു നമുക്ക് ഇവിടെ വളരെ സങ്കീർണ്ണമായ സംയോജനമുണ്ട് ആദ്യത്തെ ഫ്രിഞ്ച് പിന്നിലേക്ക് ചരിഞ്ഞതാണ് രണ്ടാമത്തെ ഫ്രിഞ്ച് പിന്നിലേക്ക് ചരിഞ്ഞിരിക്കുന്നു മൂന്നാമത്തെ ഫ്രിഞ്ച് മുന്നോട്ട് ചരിഞ്ഞതും അകത്തെ ഫ്രിഞ്ച് ഏതാണ്ട് നേരെയുമാണ് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ ഇത് കാണാൻ കഴിയും ക്രാക്ക് ടിപ്പ് സ്ട്രെസ് ഡിസ്പ്ലേസ്മെന്റ് ഫീൽഡ് സമവാക്യങ്ങൾ എന്നിവയുടെ പിന്നീടുള്ള വികസനത്തിൽ ഞാൻ ഇതെല്ലാം ഉപയോഗിക്കും സ്ട്രെസ് ഫീൽഡിൽ നിങ്ങൾ ഉയർന്ന ഓർഡർ പദങ്ങൾ എടുക്കുകയാണെങ്കിൽ ഈ ജോമട്രി സവിശേഷതകളെല്ലാം ഇത് വിശദീകരിക്കും വാസ്തവത്തിൽ ഫോട്ടോഇലാസ്റ്റിസിറ്റി വ്യത്യസ്ത ലോഡിംഗ് മോഡുകളിൽ തമ്മിൽ വ്യത്യാസം കാണിക്കുന്നത് വളരെ ഭാഗ്യമാണ് അത് മറ്റ് പരീക്ഷണങ്ങളിലും നമുക്ക് പ്രതീക്ഷിക്കാം നമ്മൾ അത് കാണും എന്നാൽ ഈ ശ്രേണിയിലെ പദങ്ങളുടെ എണ്ണത്തിന്റെ പ്രവർത്തനമായി ജോമട്രി സവിശേഷതകൾ മാറുന്നു വളരെ അസാധാരണമാണ് ഫ്രാക്ചർ മെക്കാനിക്സ് ആളുകൾ മനസ്സിലാക്കണമെന്ന് ദൈവം ശരിക്കും ആഗ്രഹിച്ചിരുന്നുവെന്നും ഫോട്ടോ ഇലാസ്റ്റിറ്റിയിലൂടെ അത് നിങ്ങളെ പഠിപ്പിക്കുകയും ചെയ്തു ഈ സവിശേഷതകളെല്ലാം നിങ്ങൾ കാണും കാരണം ഞാൻ വെസ്റ്റർഗാർഡ് സ്ട്രെസ് ഫീൽഡ് സമവാക്യം വികസിപ്പിച്ചുകഴിഞ്ഞാൽ നിങ്ങൾ അവ പ്ലോട്ട് ചെയ്ത് ഫ്രിഞ്ച്കൾ എങ്ങനെയെന്ന് കാണും ആ ആശ്ചര്യത്തിനായി നിങ്ങൾ കാത്തിരിക്കുക കാരണം എനിക്ക് ഒരു അനലിറ്റിക്കൽ മോഡലിംഗ് ആവശ്യമാണ് അത് ഞാൻ പരീക്ഷണത്തിൽ എന്താണ് നിരീക്ഷിക്കുന്നത് എന്ന് വിശദീകരിക്കുന്നു എനിക്ക് ഇത് വിശദീകരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ വിശകലന വികസനം വീണ്ടും നോക്കേണ്ടതുണ്ട്

നിങ്ങൾ ഏതെല്ലാം അപ്രോക്സിമേഷൻ ചെയ്തുവെന്ന് കണ്ടെത്തണം അത് വളരെ പ്രധാനമാണ് നമുക്ക് മറ്റൊരു ഉദാഹരണമുണ്ട് ഇവിടെ വിള്ളലുകളുടെ എണ്ണം 8 ആയി വർദ്ധിച്ചു ഇവിടെ ഫ്രിഞ്ച്കൾ വളരെ മനോഹരമാണെന്ന് നിങ്ങൾ കാണുന്നു വാസ്തവത്തിൽ ഇത് വളരെ ബുദ്ധിമുട്ടുള്ള പരീക്ഷണമാണ് നിങ്ങൾ സിമട്രി കാണുന്നു ഒരു പരീക്ഷണത്തിൽ ചെറിയ വ്യതിയാനം ഉണ്ടെങ്കിലും സിമട്രി നഷ്ടപ്പെടും ഈ മനോഹരമായ റേഡിയൽ വിള്ളലുകളെല്ലാം ഉണ്ടാക്കുന്നതിൽ ബുദ്ധിമുട്ടിയ എന്റെ വിദ്യാർത്ഥിയെ നിങ്ങൾ അഭിനന്ദിക്കണം ഇത് ചെയ്തത് എന്റെ വിദ്യാർത്ഥി D ചൌഹാൻ ആണ് ഫ്രിഞ്ച്കൾ വളരെ മനോഹരമായി രൂപപ്പെട്ടതായി നിങ്ങൾ കാണുന്നു ഇവിടെ വിള്ളലുകൾ തമ്മിൽ വലിയ ഇടപെടലുകളൊന്നുമില്ലെന്നും നിങ്ങൾ കണ്ടെത്തുന്നു അതിനാൽ ഇത് മറ്റൊരു ആശയപരമായ ധാരണയാണ് ഒന്നിലധികം വിള്ളലുകൾ ഉണ്ടാകാം അവ വളരെ അടുത്തായിരിക്കുമ്പോൾ മാത്രമേ എന്തെങ്കിലും തരം വിള്ളൽ ഇടപെടൽ ഉണ്ടാവുകയുള്ളൂ അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ഉദാഹരണം കാണും അതിനാൽ ആളുകൾ തുടക്കത്തിൽ ഒരു വിള്ളൽ ഉപയോഗിച്ച് ആരംഭിച്ചു തുടർന്ന് അവർ ഒന്നിലധികം വിള്ളലുകളിലേക്ക് പോയി ആയിരക്കണക്കിന് വിള്ളലുകൾ ഉണ്ടെങ്കിൽ നമുക്ക് അത് എങ്ങനെ കൈകാര്യം ചെയ്യാം എന്ന് ഇപ്പോൾ പഠനങ്ങളുണ്ട് ഉണ്ട് പ്രത്യേകിച്ചും പ്രഷർ വെസൽ പ്രശ്നം വളരെ പ്രധാനമാണ് ആളുകൾ ഇത് വിവിധ രീതികളിൽ മാതൃകയാക്കാൻ ശ്രമിച്ചു ഈ ക്ലാസ്സിൽ നമ്മൾ നോക്കിയത് ഫ്രാക്ചർ മെക്കാനിക്സിന് ഉത്തരം നൽകാൻ കഴിയുന്ന ചില ചോദ്യങ്ങൾ നമ്മൾ ഉന്നയിച്ചിട്ടുണ്ട് അത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നതിന് നിങ്ങൾ കൂടുതൽ പരിശോധനകൾ നടത്തേണ്ടതുണ്ട് എന്തായാലും ഒരു മെറ്റീരിയൽ ടെസ്റ്റായ ഫ്രാക്ചർ ടഫ്നെസ്നെക്കുറിച്ച് നിങ്ങൾ ഒരു പരിശോധന നടത്തേണ്ടിവരും അതിനുപുറമെ നിങ്ങൾ സൈക്കിളുകളുടെ എണ്ണത്തിന്റെ ഫംഗ്ഷൻ ആയി ക്രാക്ക് വളർച്ച രേഖപ്പെടുത്തേണ്ടതുണ്ട് ഫ്രാക്ചർ മെക്കാനിക്സ് അതിന്റെ സമീപനത്തിൽ സമഗ്രമാണെന്ന് പറഞ്ഞ് നമ്മൾ മുന്നോട്ട് പോയി നേർത്തതും കട്ടിയുള്ളതുമായ മാതൃകകൾക്കായി നമുക്ക് വ്യത്യസ്ത ശുപാർശകൾ ഉണ്ട് പിന്നെ പ്രവർത്തന പരാജയങ്ങളുടെ ഒരു പരമ്പര നമ്മൾ പരിശോധിച്ചു അതിൽനിന്ന് ഒരു വിള്ളൽ വളർച്ചയ്ക്ക് ശേഷം ആണ് ഫ്രാക്ചർ ഉണ്ടാവുന്നത് എന്ന് മനസ്സിലായി അവസാനമായി ഫോട്ടോഇലാസ്റ്റിക് ഫലങ്ങളിൽ നിന്ന് ചില ഉദാഹരണങ്ങൾ നമ്മൾ പരിശോധിച്ചു ഫ്രിഞ്ച്കളുടെ ജോമട്രി വിശകലനത്തിലൂടെ ഇത് ഒരു മോഡ് 1 ലോഡിംഗ് മോഡ് 2 ലോഡിംഗ് അല്ലെങ്കിൽ മോഡ് 1 മോഡ് 2 എന്നിവയുടെ സംയോജനമാണോ എന്ന് മനസ്സിലാക്കാവുന്നതാണ്